ശരി ഈ മൊഡ്യൂൾ നിങ്ങളെ കോഴ്സിലുടനീളം ഞങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആശയത്തിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നു അത് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കപ്പെടുന്നവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങൾ ലളിതമായ സംഖ്യാ സംയോജനത്തിന്റെ അവലോകനത്തോടെ ആരംഭിക്കും നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒന്ന് നിങ്ങൾ അത് ഹൈസ്കൂളിൽ കാണുമായിരുന്നു അണ്ടർ ഗ്രേഡിൽ ശരിയാണ് ഒരു ഫംഗ്ഷന്റെ ഇന്റർപോളേഷൻ എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുകയും സംഖ്യാ സംയോജനത്തിനായി ആദ്യത്തെ രണ്ട് ആശയങ്ങളെ കൂടുതൽ വിപുലമായ ആശയങ്ങളാക്കി ആശയം ഉപയോഗിക്കുകയും ചെയ്യും അതിനാൽ ഈ മൊഡ്യൂളിലെ ഒഴുക്ക് അതായിരിക്കും ഞങ്ങൾ ലളിതമായ സംഖ്യാ സംയോജനത്തിൽ നിന്ന് ആരംഭിക്കുന്നു അതിനാൽ നമുക്ക് അതിന്റെ ഇന്റഗ്രൽ വിശകലന പരിഹാരമില്ലാത്ത ഒരു ഫംഗ്ഷൻ എടുക്കാം കൃത്യമായി സംയോജിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം ഫംഗ്ഷനുകൾ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനാൽ നമുക്ക് വേണ്ടത് ഈ ഫംഗ്ഷന്റെ അവിഭാജ്യഘടകമാണ് വൈദ്യുതകാന്തികതയിൽ ഉടനീളം ഇത്തരം അവിഭാജ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു കാരണം വൈദ്യുതകാന്തികത്തിൽ ദൃശ്യമാകുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ബെസൽ ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കും അവയ്ക്ക് അടുത്ത രൂപത്തിലുള്ള വിശകലന പദപ്രയോഗം ഇല്ല അതിനാൽ ശരി എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിന്റെ ഈ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നു അതിനാൽ നിങ്ങൾ നേരത്തെ ഹൈസ്കൂളിൽ പഠിച്ച റീമാൻ സംയോജനത്തെക്കുറിച്ചുള്ള ആശയം എല്ലാവർക്കും അവബോധപൂർവ്വം അറിയാം അതിന്റെ സംയോജനം വലതുവശത്തുള്ള പ്രദേശമാണ് അതിനാൽ ഞാൻ ഇത് ഇതുപോലെ വരച്ചാൽ ഇത് a എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇത് b എന്ന് പറയുകയാണെങ്കിൽ ഈ വക്രത്തിന് കീഴിലുള്ള ഏരിയയാണ് ടെ അവിഭാജ്യ ഘടകം ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഈ സംയോജനം ഏകദേശം എങ്ങനെ ശരിയായി ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ സംയോജന നിയമങ്ങളും നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും അതിനാൽ തീർച്ചയായും ആദ്യത്തെ നിയമം എന്ന് വിളിക്കപ്പെടുന്നതാണ് ചതുരാകൃതിയിലുള്ള നിയമങ്ങൾ എന്ന് വിളിക്കുന്നു എനിക്ക് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മധ്യ പോയിന്റ് നിയമം പിന്നെ ഇതാണ് എന്റെ ഇടവേള ഒരു കോമ b ഇതാണ് അപ്പോൾ എന്താണ് പറയുന്നത് a യ്ക്കും b യ്ക്കും ഇടയിലുള്ള ഈ വിടവ് ഞാൻ h ആയി സൂചിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഒറ്റ മൂല്യം കൊണ്ട് ഇത് മാറ്റിസ്ഥാപിക്കുന്നു അപ്പോൾ അതാണ് മധ്യബിന്ദു ശരി ഈ അവിഭാജ്യത എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ദീർഘചതുരത്തിന്റെ വലത് വിസ്തീർണ്ണം അനുസരിച്ച് അതിനാൽ അത് അങ്ങനെയാണ് അതാണ് എന്റെ നീളത്തിന്റെ വീതി ശരി എല്ലാവരും ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ലഭിക്കുന്നത് പോലെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഇതിനെ ഫംഗ്ഷന്റെ വലതുവശത്തെ സ്റ്റെയർകേസ് ഏകദേശം എന്നും വിളിക്കാം അതിനാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ ഇത് വളരെ കൃത്യമാകില്ല ഇത് വളരെ കൃത്യമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് h എന്നത് വളരെ ചെറുതാക്കുക അത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ കണ്ടിരുന്ന രണ്ടാമത്തെ നിയമത്തെ ഞങ്ങൾ ട്രപസോയ്ഡൽ റൂൾ എന്ന് വിളിക്കും അതേ പ്രവർത്തനം ഇവിടെയും എടുക്കുക അതേ രീതിയിൽ വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുക അതിനാൽ ഇത് നമുക്ക് 2 പോയിന്റ് a b എന്ന് പറയാം ഇത് എന്താണ് ചെയ്യുന്നത് മധ്യബിന്ദുവിലൂടെ ഒരു ദീർഘചതുരം ഇടുന്നതിന് പകരം ഈ അവകാശത്തെ ഉൾക്കൊള്ളുന്ന ട്രപീസിയം ഇടാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു അതിനാൽ ഇത് ഇതുപോലെ ഒരു ട്രപീസിയം എടുത്ത് ഇവിടെ ഈ അളവ് കണക്കാക്കാൻ പോകുന്നു എനിക്ക് നീളം നൽകുമെന്നും എനിക്ക് ഈ നീളം നൽകുമെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ട്രപസോയിഡ് ഏരിയയുടെ സൂത്രവാക്യം ശരി വ്യക്തമായും ഇത് മിഡ്പോയിന്റ് റൂളിനെക്കാൾ കൃത്യതയുള്ളതായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഒരു ഫ്ലാറ്റിംഗിന് പകരം ഞാൻ ഇവിടെ ഒരു ലീനിയർ ഫംഗ്ഷൻ ശരിയാക്കുന്നു സമാന ഇന്റഗ്രലിന് കൂടുതൽ കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ അടുത്ത ഘട്ടം യുക്തിപരമായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഓർഡർ 0 ആയിരുന്നു ഇത് ഓർഡർ 1 ആയിരുന്നു ഓർഡർ 2 അർത്ഥമാക്കുന്നത് ഞാൻ ഏത് തരത്തിലുള്ള വക്രമാണ് ഞാൻ യോജിക്കുന്നത് ഇവിടെ ഞാൻ ഈ ഡോട്ട് ഇട്ട രേഖയ്ക്ക് അനുയോജ്യമായത് ഏത് ക്രമത്തിന്റെ ബഹുപദമാണ് ഈ ഡോട്ട് ലൈൻ ഈ ഡാഷ് ലൈൻ ഇവിടെയുണ്ട് ഇത് ഓർഡറിന്റെ പോളിനോമിയലാണ് 1 നേർരേഖ ക്രമം 1 ന്റെ പോളിനോമിയലാണ് ഈ സാഹചര്യത്തിൽ ഇത് ഓർഡർ 0 ആണ് ഇത് ഓർഡർ 1 ആണ് അതിനാൽ അടുത്ത ഘട്ടം എടുക്കാനുള്ള കാരണം നമുക്ക് നോക്കാം ഈ ഫംഗ്ഷനിലൂടെ ഒരു പരവലയം ശരിയാക്കുക അതിനാൽ ഇത് എന്റെ എ ഇത് എന്റെ ബി ശരി എന്ന് പറയാം അതിനാൽ എനിക്ക് ഇതുപോലുള്ള ചില മൂന്ന് പോയിന്റുകൾ ഇവിടെ എടുക്കാം ഈ നിയമം ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാണ് എങ്ങനെയെങ്കിലും ഈ മൂന്ന് പോയിന്റുകളിലൂടെ ഒരു പരാബോളയെ ഫിറ്റ് ചെയ്യട്ടെ കാരണം ഒരു പരവലയ വലത് അദ്വിതീയമായി വ്യക്തമാക്കാൻ എനിക്ക് മൂന്ന് പോയിന്റുകൾ ആവശ്യമാണ് കൂടാതെ ഏതെങ്കിലും പോളിനോമിയൽ ഫംഗ്ഷൻ ഏരിയ കണക്കാക്കുക അതിന്റെ അവിഭാജ്യത്തെക്കുറിച്ച് എന്താണ് എനിക്ക് ഒരു പോളിനോമിയലിനെ അടുത്ത രൂപത്തിൽ സംയോജിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ അത് ചെയ്യുന്നത് എനിക്ക് ഈ നിയമങ്ങളെല്ലാം ശരിയാണ് അതിനാൽ അത് നൂതനമായിരുന്ന കാലത്ത് ആളുകളുടെ പേരുകൾ അതിന്റെ പിന്നിൽ പോയി അതിനാൽ സിംപ്സൺ എന്ന പേരിൽ ചില വ്യക്തികൾ ഈ നിയമം കണ്ടെത്തി നിങ്ങൾ 300 വർഷം മുമ്പ് ജനിച്ചവരാണെങ്കിൽ അത് നിങ്ങളുടെ പേരായിരിക്കും അതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഈ സിംപ്സണിന്റെ നിയമം നിങ്ങൾക്ക് ഒരു പദപ്രയോഗം നൽകുന്നുവെന്ന് പറയുന്നു അത് രണ്ടാമത്തെ ഓർഡർ ഓർഡർ ചെയ്യാൻ കൃത്യമാണ് അതിനാൽ ഞാൻ ഉയർന്നതും ഉയർന്നതുമായ ക്രമത്തിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷനെ നന്നായി ഏകദേശമാക്കാൻ എനിക്ക് കഴിയും ഒരിക്കൽ പോളിനോമിയലിനെ സംയോജിപ്പിക്കുന്ന ഫംഗ്ഷനെ ഞാൻ ഏകദേശം കണക്കാക്കുന്നത് എളുപ്പമാണ് അതിനാൽ ലളിതമായ സംഖ്യാ സംയോജനത്തിന് പിന്നിലെ ആശയം അതാണ് ഇതുമായി നമുക്ക് അൽപ്പം മുന്നോട്ട് പോകാം നമ്മൾ കണ്ട ഈ ലളിതമായ നിയമങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാന ആശയം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോൾ ഈ ലളിതമായ നിയമങ്ങളുടെ അടിസ്ഥാനം എന്താണ് ടെയ്ലറുടെ സിദ്ധാന്തം ഇവിടെ ഉപയോഗത്തിൽ വന്നതിൽ അതിശയിക്കാനില്ല ഞങ്ങൾ ഇത് സംഖ്യാ സാങ്കേതികതകളിൽ വ്യാപകമായി ഉപയോഗിച്ചു ശരിയല്ല അതിനാൽ ഓർഡറുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫംഗ്ഷൻ f ഒരു പോയിന്റിനെക്കുറിച്ച് ഏകദേശം കണക്കാക്കാമെന്ന് ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ ആദ്യ പദം സ്ഥിരമാണ് പിന്നെ എനിക്ക് ഒരു രേഖീയ പദമുണ്ട് തുടർന്ന് എനിക്ക് ക്വാഡ്രാറ്റിക് പദമുണ്ട് അങ്ങനെ വലതുവശത്തും ഇത് അനന്തമായ സംഗ്രഹമാണ് അതിനാൽ നമുക്ക് എടുക്കാം നമുക്ക് ഗണിതം ലളിതമാക്കാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് ശരി എന്ന് എഴുതാം അപ്പോൾ എന്താണ്

അപ്പൊ ശരി എനിക്ക് എവിടെ വേണമെങ്കിലും ഉത്ഭവം സ്ഥാപിക്കാം അതിനാൽ എനിക്ക് കണക്ക് എളുപ്പമാക്കുകയേ ഉള്ളൂ അതിനാൽ ഇപ്പോൾ എനിക്ക് f എന്നതിന് ഒരു തരം വിശകലന രൂപമുണ്ട് അത് ഏകദേശമാണ് ഈ സീരീസിന്റെ എത്ര നിബന്ധനകൾ ഞാൻ ശരിയാക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഇത് ഒരു ഏകദേശ കണക്കായിരിക്കും ഇപ്പോൾ ഞാൻ ഇത് സമന്വയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഇത് സംയോജിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ ഇത് ഇവിടെ വയ്ക്കാൻ പോകുന്നു അതിനാൽ ആദ്യ ടേമിൽ ആദ്യ ടേമിന് എന്ത് സംഭവിക്കും ഇത് 0 മുതൽ h വരെ സംയോജിപ്പിക്കുന്ന സ്ഥിരമായ വലത് ആണ് അതിനാൽ 0 ൽ നിന്ന് h ലേക്ക് സംയോജിപ്പിക്കുന്നത് എനിക്ക് ഒരു നൽകുമോ വിദ്യാർത്ഥി h h ശരിയാണ് അതിനാൽ ഇത് എനിക്ക് ഒരു h നൽകും ഇത് ആദ്യ ടേമാണ് അപ്പോൾ രണ്ടാമത്തെ ടേം ശരിയാണ് അതിനാൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ശരിയാകും ഞാൻ പറയുന്നത് അതിനാൽ സ്ഥിരമായ ഒരു അവകാശവും അടുത്ത ടേമും എനിക്ക് ഒരിക്കൽ സംയോജിപ്പിച്ച് നൽകാൻ പോകുമ്പോൾ എനിക്ക് തരുമോ വിദ്യാർത്ഥി x ക്യൂബ് ബൈ 6 അപ്പോൾ എല്ലാ ഹയർ ഓർഡർ ടെമുകളും വീണ്ടും ചെയ്യാൻ എളുപ്പം ആയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എവിടെയാണ് സിമ്പിൾ ആയ നിയമങ്ങൾ ഉള്ളത് എന്നും അവൻ ഇച്ചിടെ നിന്ന് വന്നു എന്നും കാണാൻ സാധിക്കും അതായത് നമ്മൾ മുൻപ് കണ്ട ദീർഘാച്ചതുര നിയമം എന്താണ് പറയുന്നത് അത് അതിനെ നിലനിർത്തുന്നു വിദ്യാർത്ഥി ചതുരാകൃതിയിലുള്ളത് സ്ക്വയർ റൈറ്റ് ഇതാണ് പിശക് വലത്തിന്റെ ക്രമം അതിനാൽ അതാണ് ക്രമം അതിനാൽ ഒരു ഘട്ടത്തിൽ ഒരു ഫംഗ്ഷന്റെ മൂല്യം നിങ്ങളുടെ ദീർഘചതുരം റൂൾ ഓകെ ആയ ഇടവേള കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ ഞാൻ ട്രപസോയ്ഡൽ ഭരണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ലീനിയർ വലത് നിലനിർത്താൻ ആഗ്രഹമുണ്ട് എന്നാൽ ലീനിയർ പദങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഞാൻ എങ്ങനെ മാറ്റിസ്ഥാപിക്കണമെന്ന് നിങ്ങൾ കരുതുന്നു മാറ്റിസ്ഥാപിക്കണോ ശരി പരിമിതമായ വ്യത്യാസം ശരിയാണ് എനിക്ക് പറയാൻ കഴിയും എനിക്ക് ഇത് ഏകദേശം എന്ത് എഴുതാം അതിനാൽ ആദ്യത്തെ രണ്ട് നിബന്ധനകൾ ഞാൻ നിലനിർത്തിയാൽ എനിക്ക് ലഭിക്കും പിശക് ശരിയാകും അതിനാൽ ഇത് ഒരു എച്ച് റദ്ദാക്കപ്പെടും എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എനിക്ക് അങ്ങനെ ലഭിക്കും h എനിക്ക് പൊതുവായത് എടുക്കാം ന്റെ ഗുണകം എന്താണ് വിദ്യാർത്ഥി പകുതി പകുതി ന്റെ ഗുണകം എന്താണ് പകുതി വലത് അതിനാൽ എനിക്ക് കിട്ടാൻ പോകുന്ന 2 പുറത്തെടുക്കാം അതിനാൽ ഇത് നിങ്ങളുടെ ട്രപസോയ്ഡൽ നിയമം പോലെ തന്നെയല്ലേ കാണുന്നത് അതിനാൽ ടെയ്ലറുടെ സിദ്ധാന്തമാണ് അടിസ്ഥാന തത്വമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ ടേമിലേക്ക് പോകുന്നത് തുടരാം നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായ പദപ്രയോഗങ്ങൾ ലഭിക്കും അതിനാൽ സിംപ്സണിന് ശേഷമുള്ള ഈ സൂത്രവാക്യങ്ങൾ ആരുടെ പേരിലും പേരിടുന്നത് നിർത്തി കാരണം അത് വളരെ വിരസമായി പക്ഷേ ഈ പൊതു തത്ത്വങ്ങളെ ന്യൂട്ടൺ കോട്സ് ഫോർമുല എന്ന് വിളിക്കുന്നു ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ ശരിക്കും പ്രധാനമല്ല അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സംഖ്യാ സംയോജനത്തിന് പിന്നിലെ അടിസ്ഥാനമാണ് ലളിതമായ സംഖ്യാ ഏകീകരണം ശരിയാണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി സങ്കീർണ്ണമായ ആശയങ്ങൾ നോക്കാം അതിനാൽ ഞങ്ങൾ സംഖ്യാ സംയോജനം ശരിയായി നോക്കുകയായിരുന്നു ഹൈസ്കൂളിൽ ഞങ്ങൾ കണ്ട ദീർഘചതുരം നിയമം ട്രപസോയ്ഡൽ നിയമം മുതലായവ അടിസ്ഥാനപരമായി ടെയ്ലറുടെ സിദ്ധാന്തം പോലെയുള്ള ലളിതമായ ഏകീകരണ നിയമങ്ങളുടെ അടിസ്ഥാനം ഞങ്ങൾ കണ്ടെത്തി ഈ ആശയം വിപുലീകരിക്കാനും അതിനെ കുറച്ചുകൂടി രൂപപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് അത് ചെയ്യാം അതിനാൽ നമ്മൾ കണ്ടത് ട്രപസോയ്ഡൽ നിയമം 0 മുതൽ h വരെയുള്ള ഒരു അവിഭാജ്യമാണ് എല്ലാവർക്കും ഇപ്പോൾ പരിചിതമാണ് 0 മുതൽ നീളവും h വലത് ദൈർഘ്യവും അതിനാൽ ഇതായിരുന്നു ഇവിടെ എന്റെ ചടങ്ങ് ഇത് 0 ഉം h ഉം ആണ് ഇത് എന്റെയും കൂടാതെ ഈ ഏകദേശം എന്താണ് ചെയ്യുന്നത് ഇത് ഇതുപോലെ ഒരു നേർരേഖ ഇട്ടുകൊണ്ട് ഇവിടെയുള്ള പ്രദേശം നിങ്ങളോട് പറയുന്നു അതാണ് ഇവിടെ കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നത് പക്ഷേ ഇത് 0 മുതൽ മണിക്കൂർ വരെയുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു ഇപ്പോൾ അടിസ്ഥാനപരമായി ഈ നിയമം ഒരു മുഴുവൻ ഇടവേളയിലും നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് n പോയിന്റുകൾ ഉണ്ടെന്ന് പറയാം അതിനാൽ ഇതാണ് ഇവിടെ എന്റെ x അച്ചുതണ്ട് എനിക്കുണ്ട് അത് ശരിയാകണമെന്നില്ലെങ്കിലും സ്പെയ്സിംഗ് ഏകതാനമാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ മുതലുള്ള മുഴുവൻ അവിഭാജ്യവും കണ്ടെത്താൻ എനിക്ക് ഈ ട്രപസോയ്ഡൽ നിയമം പ്രയോഗിക്കണമെങ്കിൽ ഈ ഓരോ സെഗ്മെന്റിനുമുള്ള സംഭാവന ഞാൻ ശരിയായി ചേർത്താൽ മതി അതിനാൽ എനിക്ക് ഇത് ഇവിടെ വേണമെങ്കിൽ ഇത് നിങ്ങൾ കരുതുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ ഇവിടെ ആദ്യ സെഗ്മെന്റിനായി വിദ്യാർത്ഥി ശരി എനിക്ക് കിട്ടുമോ അപ്പോൾ ഞാൻ ഞാൻ ന്റെ ഗുണകം ആയിരിക്കും അതിനാൽ അതിന്റെ ഗുണകം ഈ ഇടവേളയിൽ നിന്നായിരിക്കും അതുപോലെ ഇവിടെ ഉണ്ട് ഈ ഇടവേളയിൽ നിന്നുള്ള സംഭാവന ഞാൻ എടുക്കുമ്പോൾ വീണ്ടും വരും അതിനാൽ അതിന്റെ സംഭാവന മറ്റൊരു അതിനാൽ ഇതെല്ലാം എനിക്ക് ഇങ്ങനെ എഴുതാം അതിനാൽ എനിക്ക് ഒരു എച്ച് കോമൺ എടുക്കാം എനിക്ക് ലഭിക്കും

ശരി വളരെ നേരായ മുന്നോട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താമായിരുന്നു ഇത് മാത്രമേ ചെയ്യാനാഗ്രഹമുള്ളൂവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിർത്താമായിരുന്നു പക്ഷേ നമുക്ക് ഇത് കൂടുതൽ സ്റ്റാൻഡേർഡ് രീതിയിൽ എഴുതാൻ ശ്രമിക്കാം എന്താണ് ആ സ്റ്റാൻഡേർഡ് രീതി നമുക്ക് ഇത് ഇങ്ങനെ ഒരു സംഗ്രഹം എഴുതാം ശരി ഈ ഫോർമുല ഈ അച്ചിൽ ശരിയായി യോജിക്കുന്നു 's വളരെ നേരെയാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റുള്ളവർക്ക് ശരിയും അതിനാൽ അല്ലെങ്കിൽ ശരി അതിനാൽ ഞങ്ങൾ പുതിയതായി ഒന്നും ചെയ്തില്ല ഞങ്ങൾ ഇതിനകം ഉണ്ടായിരുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി വീണ്ടും എഴുതി ഞാൻ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ എന്ന് വിളിക്കാൻ പോകുന്നു അതിനാൽ ഇതാണ് ശരിയുടെ ഏകദേശ കണക്ക് ഇപ്പോൾ ഇത് എഴുതുന്ന രീതി അൽപ്പം വിചിത്രമായി തോന്നിയേക്കാം എന്നാൽ ഇതിനെയാണ് നമ്മൾ ക്വാഡ്രേച്ചർ റൂൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു ക്വാഡ്രേച്ചർ റൂളിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് ഒരു സമവാക്യത്തിന്റെ അനലിറ്റിക്കൽ ഇന്റഗ്രൽ എനിക്ക് അറിയാത്ത സാഹചര്യമാണ് ശരി അതാണ് ആദ്യത്തെ കാര്യം എന്റെ പ്രവർത്തനത്തെ വിശകലനപരമായി എങ്ങനെ സമന്വയിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സർക്കസ് എല്ലാം ചെയ്യുന്നത് അതിനാൽ പകരം ഒരു ഫോർമുല എന്നോട് ഇന്റഗ്രലിന്റെ ഏകദേശ കണക്ക് പറയുന്നു എന്താണ് ഈ ഫോർമുല അതിനാൽ ക്വാഡ്രേച്ചർ റൂൾ അർത്ഥമാക്കുന്നത് ഒരു ഫോർമുല ശരിയാണ് അതിനാൽ ക്വാഡ്രേച്ചർ റൂൾസ് എന്ന വാക്ക് മനോഹരമായി തോന്നുന്നു പക്ഷേ അതെന്താണ് അതൊരു ഫോർമുലയാണ് ഫോർമുലയുടെ രണ്ട് ചേരുവകൾ എന്തൊക്കെയാണ് ഭാരങ്ങളും ഈ ഫംഗ്ഷൻ വിലയിരുത്തേണ്ട പോയിന്റുകളും ശരിയാണ് അതിനാൽ ഇവിടെ ഒരു ക്വാഡ്രേച്ചർ റൂൾ ഉണ്ടെന്ന് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഭാരങ്ങൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻ മൂല്യനിർണ്ണയ പോയിന്റുകൾ എന്തൊക്കെയാണ് ഈ മൂല്യനിർണ്ണയ പോയിന്റുകളെ ചിലപ്പോൾ നോഡുകൾ ശരി എന്നും വിളിക്കുന്നു കൂടാതെ അത് വ്യക്തമാക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ സംയോജിപ്പിക്കാൻ ആഗ്രഹമുണ്ട് അതിനാൽ എനിക്ക് ക്വാഡ്രേച്ചർ നിയമം മാറ്റേണ്ടിവരുമോ ഇല്ല ഞാൻ നിങ്ങൾക്ക് തന്നത് ഞാൻ ഒരുപാട് കഠിനാധ്വാനത്തിന് ശേഷം കണ്ടുപിടിച്ചതാണ് ഞാൻ ഒരു ക്വാഡ്രേച്ചർ റൂൾ കണ്ടുപിടിച്ചു ഒപ്പം സംയോജിപ്പിക്കാൻ ഞാൻ അത് ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നാളെ വരൂ എനിക്ക് സംയോജിപ്പിക്കണം എന്ന് പറയൂ ഇവിടെ g എന്നത് വ്യത്യസ്തമായ ഫംഗ്ഷനാണ് എനിക്ക് ക്വാഡ്രേച്ചർ നിയമം മാറ്റേണ്ടതുണ്ടോ ഉത്തരം അതെ ഇല്ല എന്നാണ് ഉത്തരം മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ ഫംഗ്ഷൻ സംയോജിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ക്വാഡ്രേച്ചർ റൂൾ മാറ്റേണ്ടതുണ്ടോ അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത ക്വാഡ്രേച്ചർ റൂൾ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം എന്താണ് ക്വാഡ്രേച്ചർ റൂൾ വിദ്യാർത്ഥി പ്രവർത്തനത്തെ ആശ്രയിച്ച് വിദ്യാർത്ഥി കാരണം നമ്മൾ 0 ഉപയോഗിക്കുമ്പോൾ കാരണം ഫംഗ്ഷന്റെ കൂടുതൽ അനുസരിച്ചാണ് ഞങ്ങൾ ഈ പോയിന്റുകൾ തീരുമാനിച്ചത് കാരണം എന്തോ ഒരു ട്രപസോയ്ഡൽ പോലെ കാണപ്പെടുന്നതിനാൽ ഞങ്ങൾ ആ ഭാഗം എടുക്കേണ്ടതുണ്ട് ഇല്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തത് x അച്ചുതണ്ടിൽ ലൈൻ എടുത്തതാണ് ഞങ്ങൾ അത് യൂണിഫോമിൽ ഈ പോയിന്റ് ശരിയാക്കി കൂടാതെ ഞാൻ കൊടുക്കുന്ന വില ഓരോ to to സെഗ്മെന്റിലും ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒരു നല്ല ഏകദേശമാണോ അല്ലയോ എന്ന് ഒരു ട്രപസോയ്ഡൽ ഉപയോഗിച്ച് ഞാൻ ഏകദേശം കണക്കാക്കാൻ പോകുന്നു എന്നതാണ് അതിനാൽ ഞാൻ ഒരു പുതിയ ഫംഗ്ഷനുമായി വന്നാൽ g ക്വാഡ്രേച്ചർ റൂൾ മാറ്റേണ്ടതില്ല എനിക്കുള്ളതെല്ലാം and t എനിക്ക് നൽകുകയും ഇവ ശരിയാക്കുകയും ചെയ്യുന്നു അപ്പോൾ പുതിയ ഫംഗ്ഷൻ g യുടെ ഇന്റഗ്രൽ എങ്ങനെ വരും ഇത് ലളിതമായി ആയിരിക്കും എനിക്ക് ഇപ്പോൾ ഇന്റഗ്രൽ വേണമെങ്കിൽ ഫംഗ്ഷന്റെ മൂല്യം ശരിയാക്കുന്നു അതിനാൽ എനിക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നു എനിക്ക് അങ്ങനെ അറിയാമെന്ന് എനിക്ക് ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് എത്രത്തോളം ശക്തിയാണെന്ന് നിങ്ങൾ കാണുന്നു ഒരു ഫംഗ്ഷന്റെയും അനലിറ്റിക്കൽ ഇന്റഗ്രൽ എനിക്ക് അറിയേണ്ടതില്ല എനിക്ക് ഫംഗ്ഷൻ മൂല്യങ്ങൾ മാത്രം മതി ചില വ്യതിരിക്തമായ പോയിന്റുകളിൽ ഫംഗ്ഷന്റെ മൂല്യം അറിയുന്നത് എനിക്ക് ഇന്റഗ്രൽ ഏകദേശം കണക്കാക്കാൻ കഴിയും അതിനാലാണ് ക്വാഡ്രേച്ചർ റൂൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണ് നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കാം ചില വ്യവസ്ഥകളിൽ എത്ര ഫംഗ്ഷനുകൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കൂടാതെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കും അതിനാലാണ് ഈ ക്വാഡ്രേച്ചർ നിയമം വളരെ പ്രധാനമാണ് പകരം ശരിയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് ഇത് ട്രപസോയ്ഡൽ നിയമമായിരുന്നു സിംപ്സണിന്റെ ഭരണത്തിൽ നിന്ന് നമുക്ക് ഒരു ക്വാഡ്രേച്ചർ റൂൾ ഉണ്ടാക്കാമായിരുന്നു സിംപ്സണിന്റെ ഭരണം എന്താണ് ചെയ്തത് ഇത് ഓരോ സെഗ്മെന്റിനും ഇടയിൽ ഒരു പരവലയത്തിന് അനുയോജ്യമാണ് അപ്പോൾ ആ ഏകദേശം തീർച്ചയായും മികച്ചതായിരിക്കും അതിനാൽ ഇത് എങ്ങനെ കൂടുതൽ കൃത്യമാക്കാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാം ഒരേ എണ്ണം ഫംഗ്ഷൻ മൂല്യനിർണ്ണയങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടുതൽ കൃത്യത വേണം ഇപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ കൃത്യത വേണമെങ്കിൽ കൂടുതൽ പോയിന്റുകളിൽ എന്റെ പ്രവർത്തനം വിലയിരുത്തണം എനിക്ക് ഒരു പരവലയ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലൈൻ ശരിയാക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ പോയിന്റുകൾ വേണം ഇപ്പോൾ നിങ്ങൾക്ക് അത്യാഗ്രഹിയാകാൻ കഴിയും എന്നതാണ് ചോദ്യം അതേ എണ്ണം പോയിന്റുകൾ നിലനിർത്തുമ്പോൾ എനിക്ക് മികച്ച കൃത്യത ലഭിക്കുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അതിനാൽ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് അതാണ്